ഇലക്ട്രിക്കൽ ഘടകങ്ങൾ ഉൾകൊള്ളുന്ന പവറും ഊർജ്ജവും ഇത് വരെ ഈ കോഴ്സിൽ കുറെ ഇലക്ട്രിക്കൽ ഘടകങ്ങൾ നമ്മൾ കണ്ടു അതായത് വോൾടേജ് സ്രോതസ്സ് കറണ്ട് സ്രോതസ്സ് റെസിസ്റ്ററുകൾ എന്നിങ്ങനെ കൂടാതെ നമ്മൾ ഈ ഘടകങ്ങളുടെ കാരക്ടറിസ്റ്റിക്സും ചർച്ച ചെയ്തിട്ടിട്ടുണ്ട് ഈ യൂണിറ്റിൽ ഈ ഘടകങ്ങളിലെ പവറും ഊർജ്ജവും നമ്മൾ നോക്കും ആദ്യം ഞാൻ പവറും ഊർജ്ജവും പൊതുവായി ചർച്ച ചെയ്യാം എന്നിട്ട് നോക്കാം നമുക്ക് അറിയാവുന്ന ഘടകങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു രണ്ട് ടെർമിനൽ ഘടകം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ പാസ്സീവ് സൈൻ കൺവെൻഷൻ വഴി വോൾട്ടേജ്ജും കറണ്ടും നിശ്ചയിക്കും അതായത് നമ്മൾ കറണ്ട് അകത്തേക്ക് പോകുന്നതായി എടുക്കും അതായത് വോൾടേജ് പോസിറ്റീവ് ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഘടകത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന പവർ V×I ആണ് ഇനി തീർച്ചയായും V യും I യും ടൈം വേരിയിങ് ആകാം ഇത് നിർവചനത്തെ മാറ്റുന്നില്ല ഇത് വളരെ ലളിതമായി അർത്ഥമാക്കുന്നത് വിട്ടുകൊടുക്കുന്ന പവർ ടൈമിന്റെ ഫങ്ക്ഷന് ആണെന്നാണ് ഇനി ഈ P 0 ആണെങ്കിൽ V യ്ക്കും I യ്ക്കും ഏത് മൂല്യവും ആകാം നമ്മൾ ഇവിടെ പ്രത്യേകമായി ഒരു ഘടകവും ചർച്ച ചെയ്യുന്നില്ല V യ്ക്കും I യ്ക്കും ഏത് മൂല്യവും ആകാം എന്നിട്ട് ഗുണനഫലം 0 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ 0 ആകാം P 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ നിമിഷത്തിൽ ഘടകം പവർ ഉൾകൊള്ളുന്നു എന്നാണു ഇനി P 0 ആണെങ്കിൽ ഘടകം പവർ വിട്ടുകൊടുക്കുന്നു എന്നാണു നെഗറ്റീവ് പവർ ആണ് വിട്ടുകൊടുക്കുന്നത് ഇതിന്റെ അർത്ഥം ഘടകം യഥാർത്ഥത്തിൽ ബാക്കിയുള്ള സർക്യൂട്ടിലേക്ക് പവർ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നാണു അപ്പോൾ P 0 യുടെ അർത്ഥം ഘടകം പവർ ഉൾകൊള്ളുന്നു എന്നാണു P 0 ആണെങ്കിൽ ഘടകം പവർ വിട്ടുകൊടുക്കുന്നു എന്നാണു അപ്പോൾ ഇതാണ് ഒരു രണ്ട് ടെർമിനൽ ഘടകത്തിന്റെ പവർ നിർവചനം ഇത് ഞാൻ ഡിറൈവ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒരു ചാർജ് ഘടകത്തിന്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് താഴെത്തെ ടെർമിനലിലേക്ക് ഒഴുകുന്നതായിട്ട് കരുതാം അപ്പോൾ ഇത് ഒരു പ്രത്യേക പൊട്ടൻഷ്യൽ കുറയുന്നത്തിലേക്ക് ആണ് പോകുന്നത് അതിന്റെ അർത്ഥം ഇത് കുറച്ചു ഊർജ്ജം നഷ്ടമാക്കും കുറച്ചു വർക്ക് അതിൽ ചെയുന്നത് വഴി വർക്ക് ചെയ്യുന്നതിന്റെ അളവ് മാറുന്നതിന്റെ തോത് പവർ ആണ് അതിൽ നിന്നാണ് നമുക്ക് പവറിന്റെ നിർവചനം കിട്ടുന്നത് അതായത് വോൾടേജ് × കറണ്ട് ഇനി ഘടകത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ഊർജ്ജം നോക്കാം ഇനി നമുക്ക് ഒരു സമയം അനുവദിക്കണം ഇത് കാര്യം നിർവ്വഹിക്കുന്നതിന് നമുക്ക് എടുക്കാം t1 തൊട്ട് t2 വരെ ഇത് t1 യിൽ നിന്ന് t2 യിലേക്ക് ഘടകത്തിലേക്ക് കൊടുക്കുന്ന പവറിന്റെ ഇന്റഗ്രൽ ആയിരിക്കും സമയത്തിന് അനുസൃതമായി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമയത്തിന് അനുസൃതമായി V × I യുടെ ഇന്റഗ്രൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതായത് t1 മുതൽ t2 വരെ ഇത് t1 മുതൽ t2 ഘടകത്തിലേക്ക് കൊടുക്കുന്ന ഊർജ്ജം ആണ് ഇത് ഒരു രണ്ടു ടെർമിനൽ ഘടകത്തിന്റേതാണ് തീർച്ചയായും ഒരു വോൾടേജ്ജും ഒരു കറണ്ടും ഉള്ളതിന് ഇനി ഈ വിട്ടുകൊടുക്കുന്ന ഊർജ്ജം ഒരു പ്രത്യേക സമയത്തു ഉണ്ടെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം നമുക്ക് ചില പ്രത്യേക ഘടകങ്ങൾ നോക്കാം ഇനിയിത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് ഇത് വരെ നമ്മൾ പൊതുവായി രണ്ടു ടെർമിനൽ ഉള്ള ഘടകം ആണ് നോക്കിയിട്ടുള്ളത് ഇനി ഘടകത്തിന് രണ്ടു ടെർമിനലിനേക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും രണ്ടു ടെർമിനൽ ഉള്ള ഘടകം വളരെ എളുപ്പം ആയിരുന്നു ഒരു വോൾടേജ് ഉണ്ടായിരുന്നു ഘടകത്തിന് കുറുകെ ഒരു കറണ്ട് ഘടകത്തിലൂടെ പോകുന്നതും പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഗുണനഫലം പവർ ആണെന്ന് ഞാൻ പറഞ്ഞത് പോലെ അത് നമുക്ക് അടിസ്ഥാനഘടകങ്ങൾ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാം ചാർജുകളുടെ ചലനം പൊട്ടൻഷ്യൽ V യിൽ കൂടി പോകുന്നത് കണക്കാക്കി നിങ്ങൾക്ക് ഒരു N ടെർമിനൽ ഘടകം ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1 2 കൂടാതെ N ടെർമിനൽ എങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ് N 1 സ്വതന്ത്ര സ്രോതസ്സുകൾ ഉണ്ട് കറണ്ടും ഈ N ടെർമിനൽ ഘടകത്തിൽ നിർവചിച്ചതാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും റെഫെറെൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ എല്ലാ N ടെർമിനലുകളിലേക്കും കണക്കാക്കിയാൽ കൂടാതെ എല്ലാ N ടെർമിനലുകളിലേക്കും പോകുന്ന കറണ്ട് കണക്കാക്കിയാലും നമുക് പറയാം ഇത് റഫറൻസ് നോഡ് എന്ന് ടെർമിനൽ 1 ന്റെ വോൾടേജ് റഫറൻസ് നോഡിനെ ആശ്രയിച്ചു V1 എന്ന് ടെർമിനൽ 2 ന്റെ വോൾടേജ് റഫറൻസ് നോഡിനെ ആശ്രയിച്ചു V2 എന്ന് റഫറൻസ് നോഡിനെ ആശ്രയിച്ചു ടെർമിനൽ N ന്റെ വോൾടേജ് VN എന്ന് N ടെർമിനലുകളിൽ കറണ്ട് I1 I2 എന്നിങ്ങനെ IN വരെ ഇനി നിർവചിച്ചിരിക്കുന്ന പവർ ഘടകത്തിലേക്ക് കൊടുത്തിരിക്കുന്ന പവർ എല്ലാ ടെർമിനലുകളിലെയും VKIK യുടെ മൊത്തം തുക ആണ് അതായതു V1 I1V2 I2VNIN അപ്പോൾ ഞാൻ സ്ഥാപിച്ചിട്ടില്ല ഇത് പവർ ആണെന്ന് പക്ഷെ ഇത് ഒരു N ടെർമിനൽ ഉള്ള ഘടകത്തിന്റെ നിർവചനം ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കാം ഇത് സത്യമാണെന്നു ഒരു സമാനമായ കാര്യം ഈ പദപ്രയോഗത്തിലും രണ്ടു ടെർമിനൽ ഉള്ള ഘടകത്തിന്റെ പദപ്രയോഗത്തിലും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്തോ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടെന്നു തോന്നും കാരണം എന്താണ് ഈ റഫറൻസ് നോഡു നമ്മൾ അളന്ന എല്ലാ വോൾടേജ്ജിനേയും ആശ്രയിച്ചു നോക്കിയാൽ ഇനി ഇത് എന്തും ആകാം ഇത് വേണമെങ്കിൽ ഒരു ഘടകത്തിന്റെ N ടെർമിനൽ ആകാം പക്ഷെ റഫറൻസ് എന്തുമാകാം പവർ P ആണെങ്കിൽ എന്തോ ഒരു വ്യക്തതയില്ലായ്മ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഉണ്ട് അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഏതു റഫറൻസ് തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിനെ കൂട്ടാക്കാതെ ഒരു വ്യക്തതയില്ലായ്മയും ഇല്ല പവറിന്റെ നിർവചനത്തിൽ അപ്പോൾ ഞാൻ വീണ്ടും അതേ N ടെർമിനൽ ഘടകം എടുക്കട്ടേ കൂടാതെ നമുക്ക് N കറണ്ടും ഉണ്ട് I1I2 IN 1IN ഇനി തീർച്ചയായും വേറെ ബന്ധം ഒന്നുമില്ല ഈ N ടെർമിനൽ ഘടകത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ N കറണ്ടിലേക്കും ഉള്ള മൊത്തമായ സംഖ്യ 0 ആണെന്ന് ഇതിന്റെ കാരണം ഒരു അടഞ്ഞ തലത്തിലേക്ക് പോകുന്ന കറണ്ടിന്റെ മൊത്തമായ തുക 0 ആയിരിക്കണം ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല കിര്ച്ചോഫ് കറണ്ട് ലോ ആണ് തീർച്ചയായും നമുക്ക് നേരത്തെയും ഒരൊറ്റ നോഡ് ഉള്ള ഈ അടഞ്ഞ തലം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ചാർജിന്റെ കൺസേർവഷൻ ആകണമെന്ന് ഇല്ല കൂടാതെ ചാർജിന്റെ സ്ഥലത്തുള്ള ശേഖരണവും അല്ല ഒരു മുഴുവൻ സർക്യൂട്ട് എടുക്കുമ്പോഴോ ഒരു അടഞ്ഞ തലം കുറെ നോഡുകളുമായി അടച്ചു കെട്ടിയിരിക്കുമ്പോഴോ ഉള്ളത് പോലെ ഇനി I1I2 തൊട്ട് IN വരെ ഉള്ള കറന്റുകളുടെ മൊത്തം തുക എടുക്കുമ്പോൾ ഈ അടഞ്ഞ തലത്തിലേക്ക് കടക്കുന്നത് അത് ഇപ്പോഴും 0 ആണ് അതിനാൽ I N I1I2 IN 1 നെഗറ്റീവ് തുക ആയിട്ട് എഴുതാം ഇനി ഇത് എന്റെ പവറിന്റെ നിർവചനം അതായത് V1I1 V2I2 VN 1IN 1 VNIN ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ I N ന്റെ മൂല്യം ഈ കിർച്ചോഫ് കറണ്ട് ലോയിൽ നിന്ന് എടുക്കും ഇത് നമുക്ക് V1I1 V2I2 VN 1IN 1 VN× I1I2 IN 1 നെഗറ്റീവ് തുക എന്ന് തരും അത് ഇങ്ങനെ വീണ്ടും എഴുതാം അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നതു എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ യഥാർത്ഥ പദപ്രയോഗം എടുത്തു എന്നിട്ട് അതിനെ പുനഃക്രമീകരിച്ചു ഇവിടെ നിന്ന് നിങ്ങൾ കാണൂ നമുക്ക് V1 VN ഉണ്ട് അത് വേറൊന്നുമല്ല പക്ഷെ V1N അതായത് ടെർമിനൽ N ന്റെ വോൾടേജ് ടെർമിനൽ 1 നെ ആശ്രയിച്ചിട്ടുള്ളത് ഇനി അടുത്ത പദം V2 VN വേറൊന്നുമല്ല പക്ഷെ V 2 N അങ്ങനെ അങ്ങനെ അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പദപ്രയോഗത്തിൽ ആണ് അത് പറയുന്നത് നമുക്ക് എടുക്കേണ്ടത് ഗുണനഫലം N 1 V × I അവിടെ N 1 വോൾടേജ് എന്ന് വെച്ചാൽ Nth ടെർമിനലിനെ അപേക്ഷിച്ചിട്ടുള്ള വോൾടേജ് ആണ് ഞാൻ ഈ കേസ്സിൽ എടുത്തിരിക്കുന്ന പോലെ × ഓരോ ടെർമിനലിലേക്ക് പോകുന്ന ടെർമിനൽ കറണ്ട് അപ്പോൾ ഈ റഫറൻസ് കാരണം നമുക്ക് വേറെ സംശയം ഒന്നുമില്ല ഏത് റഫറൻസ് നിങ്ങൾ തിരഞ്ഞെടുത്താലും നിങ്ങൾക്ക് ആ ഘടകത്തിലേക്ക് കൊടുത്തിരിക്കുന്ന അതേ പവർ തന്നെ കിട്ടും കൂടാതെ തീർച്ചയായും ഏറ്റവും നല്ലതു ഒരു ടെർമിനൽ തിരഞ്ഞെടുക്കുന്നതാണ് എന്നിട് നിങ്ങൾക്ക് N 1സ്വതന്ത്ര സ്രോതസ്സുകൾ ഉണ്ടാകും ആ ടെർമിനലിനെ ആശ്രയിച്ചു കൂടാതെ N 1സ്വതന്ത്ര കറണ്ടുകളും കൂടാതെ ആ ഗുണനഫലത്തിന്റെ ആകെ തുക ഘടകത്തിലേക്ക് കൊടുത്തിരിക്കുന്ന പവർ ആണ് ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നു റഫറൻസ് ടെർമിനൽ വിഷയമേ അല്ല എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഏത് ടെർമിനൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം റഫറൻസ് ടെർമിനൽ പോലെ എല്ലാ വോൾട്ടെജ്ജും ആ ടെർമിനലിനെ ആശ്രയിച്ചു നിർവചിക്കുക പവർ കണ്ടുപിടിക്കുക ഏത് ടെർമിനലും ആയിക്കോട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതെ സഖ്യയിലുള്ള റഫറൻസ് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഒരു കേസ്സിലെ നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾക്ക് വേറെ ഏതിലും പരീക്ഷിച്ചു നോക്കാം ഉദാഹരണമായി ടെർമിനൽ 2 നിങ്ങൾ റഫറൻസ് ടെർമിനൽ ആക്കി നോക്കുക എന്ത് സംഭവിക്കും എന്ന്